നമസ്കാരം കോഴ്സിന്റെ ഒൻപതാം ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇപ്പോൾ നമ്മൾ വിവിധ സർക്യൂട്ട് സിദ്ധാന്തങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു ഡിസി ഉറവിടവുമായി ബന്ധപ്പെട്ട് ഈ 2 ആഴ്ച അതായത് ഒമ്പതും പത്തും ആഴ്ചകൾ കൂടുതൽ എസി ഉറവിടങ്ങൾ അടങ്ങിയ സർക്യൂട്ട് വിശകലനത്തിനായി നീക്കി വയ്ക്കാം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഡിസി ഉറവിടത്തിന്റെ കാര്യങ്ങളുടെ സഹായത്തോടെ എസി സർക്യൂട്ട് വിശകലനം നമ്മൾ ചർച്ച ചെയ്യും നമുക്ക് സർക്യൂട്ട് വിശകലനത്തിന്റെ ചർച്ച ആരംഭിക്കാം എസി സർക്യൂട്ടിന്റെ വിവിധ പ്രതിഭാസങ്ങൾ മനസിലാക്കാൻ നമ്മൾ സിനുസോയ്ഡൽ സ്റ്റെഡി സ്റ്റേറ്റ് സ്റ്റേറ്റ് അനാലിസിസ് മുതലായ ആശയങ്ങൾ ഉപയോഗിക്കും ആദ്യ മൊഡ്യൂളിൽ ഫേസറുകളുടെ ആശയം ചർച്ച ചെയ്യപ്പെട്ടുവെന്ന് നമുക്ക് അറിയാം നമുക്ക് എസി ഉറവിടം ലഭ്യമാകുന്നിടത്ത് ഫേസറുകളും എസി സർക്യൂട്ട് വിശകലനവും നമ്മൾ ഉപയോഗിക്കും എസി സർക്യൂട്ട് വിശകലനത്തിന്റെ കാര്യത്തിൽ ഫേസർ എന്ന ആശയം വളരെ പ്രധാനമാണ് ഓംസ് ലോ ohm's Law കിർചോഫിന്റെ നിയമംKirchoff's Law പോലുള്ള നിയമങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ മുമ്പ് നടത്തിയ ചർച്ചകളും എസി സർക്യൂട്ടിലും പ്രയോഗിക്കാമെന്ന് നമുക്ക് അറിയാം എസി സർക്യൂട്ടുകൾ വിശകലനം ചെയ്യാൻ ഡിസി സർക്യൂട്ടിന്റെ കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്ത സിദ്ധാന്തങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഈ മൊഡ്യൂളിൽ നമ്മൾ ചർച്ച ചെയ്യും മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ നമ്മൾ ഉപയോഗിച്ച ടെക്നിക്കുകൾ എസി സർക്യൂട്ട് വിശകലനം ചെയ്യാനും ഉപയോഗിക്കാം ഡിസി സർക്യൂട്ടിന്റെ കാര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിവിധ സിദ്ധാന്തങ്ങൾ എസി സർക്യൂട്ടിലും എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസിലാക്കാൻ നമ്മൾ വിവിധ ഉദാഹരണങ്ങളുടെ സഹായം സ്വീകരിക്കും എസി സർക്യൂട്ട് വിശകലനം ചെയ്യുന്നതിനുള്ള ഘട്ടങ്ങൾ എന്തൊക്കെയാണ് ആദ്യം നമ്മൾ സർക്യൂട്ടിനെ ഫേസർ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡൊമെയ്നിലേക്ക് പരിവർത്തനം ചെയ്യും അതായത് ടൈം ഡൊമെയ്നിൽ സർക്യൂട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ ആദ്യം സർക്യൂട്ടിനെ ഫേസർ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡൊമെയ്നിലേക്ക് പരിവർത്തനം ചെയ്യും ഡിസി സർക്യൂട്ടുകളുടെ കാര്യത്തിൽ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത വിവിധ സർക്യൂട്ട് സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച് നമ്മൾ പ്രശ്നം പരിഹരിക്കും ഇതിൻറെ ഫലമായുണ്ടാകുന്ന ഫേസറിനെ ടൈം ഡൊമെയ്നിലേക്ക് പരിവർത്തനം ചെയ്യും ഫ്രീക്വൻസി ഡൊമെയ്നിൽ തന്നെയാണ് പ്രശ്നം നൽകിയിരിക്കുന്നത് എങ്കിൽ ഒന്നാം ഘട്ടം ആവശ്യമില്ല അതിനാൽ ഫേസർ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡൊമെയ്നിൽ നൽകിയിരിക്കുന്ന പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ആദ്യ പടി പിന്തുടരേണ്ടതില്ല നമുക്ക് രണ്ടാം ഘട്ടത്തിൽ നിന്ന് നേരിട്ട് ആരംഭിക്കാം ഡിസി സർക്യൂട്ടുകളുടെ കാര്യത്തിൽ നമ്മൾ ചെയ്തതിന് സമാനമായ രീതിയിലാണ് രണ്ടാമത്തെ ഘട്ടം നടപ്പിലാക്കുന്നത് രേഖീയ സംഖ്യകൾക്ക് പകരം നമ്മൾ ഡിസി സർക്യൂട്ടിന്റെ കാര്യത്തിൽ ഉപയോഗിച്ചതു പോലെ ഇവിടെയുള്ള ഒരേയൊരു മാറ്റം എസി സർക്യൂട്ട് വിശകലനത്തിന് നമ്മൾ സങ്കീർണ്ണ സംഖ്യകൾ ഉപയോഗിക്കും ഇപ്പോൾ നമുക്ക് സങ്കീർണ്ണ സംഖ്യകൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നു കാരണം ഫേസറുകളെക്കുറിച്ചും സർക്യൂട്ട് വിശകലനത്തിന്റെ മറ്റ് അടിസ്ഥാന സിദ്ധാന്തങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ സങ്കീർണ്ണ സംഖ്യകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മൾ ഇതിനകം ചർച്ചചെയ്തിട്ടുണ്ട് എസി സർക്യൂട്ടിന്റെ കാര്യത്തിൽ ആദ്യം നോഡൽ മെഷ് nodal mesh വിശകലനം മനസിലാക്കാൻ ശ്രമിക്കാം നോഡൽ വിശകലനത്തിന്റെ അടിസ്ഥാനം കിർചോഫ് കറണ്ട് kirchoff's current നിയമമാണ് മെഷ് വിശകലനത്തിനുള്ള അടിസ്ഥാനം കിർചോഫ് വോൾട്ടേജ് Kirchoff's Voltage നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇപ്പോൾ കെസിഎല്ലും കെവിഎല്ലും ആയതിനാൽ രണ്ടും സങ്കീർണ്ണ സംഖ്യയ്ക്ക് സാധുതയുള്ളതാണ് കൂടാതെ എസി സർക്യൂട്ടുകളുടെ കാര്യത്തിൽ നോഡൽ മെഷ് വിശകലനം ഉപയോഗിക്കാം എസി സർക്യൂട്ടിന്റെ കാര്യത്തിൽ വിവിധ സർക്യൂട്ട് പാരാമീറ്ററുകൾ കണ്ടെത്താൻ ആവശ്യപ്പെടുമ്പോൾ കെസിഎല്ലും കെവിഎല്ലും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് മനസിലാക്കാൻ കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ഈ സാഹചര്യത്തിൽ നമുക്ക് ഒരു സിനുസോയ്ഡൽ വോൾട്ടേജ് സ്രോതസ്സ് ഉണ്ടെന്നും അത് ആണെന്നും നമുക്ക് 1H ഇൻഡക്റ്റർ ഉണ്ടെന്നും നമുക്ക് കാണാം നമുക്ക് ആശ്രിത കറണ്ട് ഉറവിടവും 0 1F കപ്പാസിറ്ററും 0 5H ഇൻഡക്റ്ററും ഉണ്ട് ആദ്യത്തെ ചുമതല നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രത്യേക സർക്യൂട്ടിനെ ഫ്രീക്വൻസി ഡൊമെയ്നിലേക്ക് പരിവർത്തനം ചെയ്യണം എന്നതാണ് അതിനർത്ഥം നമ്മൾ ഉറവിടങ്ങളെ ഫേസറാക്കി മാറ്റുകയും സർക്യൂട്ടിൽ കാണുന്ന ഘടകങ്ങൾ ഫ്രീക്വൻസി ഡൊമെയ്നായി പരിവർത്തനം ചെയ്യുകയും ചെയ്യും ഇപ്പോൾ ഈ വോൾട്ടേജ് ഉറവിടം നമുക്ക് നോക്കാം ഈ വിവിധ സർക്യൂട്ട് ഘടകങ്ങളെ ഫ്രീക്വൻസി ഡൊമെയ്നാക്കി മാറ്റാൻ സഹായിക്കും ചിത്രത്തിൽ നമ്മൾ കാണുന്ന 1H ഇൻഡക്റ്ററിനെ ഫ്രീക്വൻസി ഡൊമെയ്നിലേക്ക് പരിവർത്തനം ചെയ്യും ഇൻഡക്റ്റർ ഇതായി പരിവർത്തനം ചെയ്യുമെന്നാണ് ഇതിനർത്ഥം 5 ഹെൻറി ഇൻഡക്റ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും കപ്പാസിറ്ററിന് ഇത് ലഭിക്കും നിങ്ങളുടെ വോൾട്ടേജ് ഉറവിടം ആയിരിക്കും റെസിസ്റ്റൻസ് മൂല്യത്തിൽ മാറ്റമുണ്ടാകില്ല ഇൻഡക്റ്ററുകളുടെയും കപ്പാസിറ്ററിന്റെയും മൂല്യം നമ്മൾ ഫ്രീക്വൻസി ഡൊമെയ്നിൽ എഴുതും നോഡ് 1 ൽ നിങ്ങൾ കെസിഎൽ പ്രയോഗിച്ചാൽ വൈദ്യുതിയുടെ ദിശ ഈ നോഡിനുള്ളിലേക്ക് പോകുന്നത് കൂടാതെ മറ്റ് 2 വൈദ്യുത പ്രവാഹങ്ങൾ നോഡിന് പുറത്തേക്ക് പോകുന്നു അതിനാൽ നമുക്ക് എഴുതാം അഥവാ അതുപോലെ നിങ്ങൾ നോഡ് 2 ൽ കെസിഎൽ പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ലഭിക്കും നമുക്ക് എന്ന് അറിയാം മുകളിലുള്ള സമവാക്യത്തിൽ ഇത് മാറ്റി സ്ഥാപിച്ച് നമുക്ക് ഇതുപോലെ ലഭിക്കും ഇത് ലളിതമാക്കുന്നതിലൂടെ നമുക്ക് ഇങ്ങനെ ലഭിക്കും ഈ 2 നോഡൽ സമവാക്യങ്ങൾ നമുക്ക് ഒരു മാട്രിക്സ് രൂപത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയും ഇപ്പോൾ നമ്മൾ ഈ 2 സമവാക്യങ്ങളും മാട്രിക്സ് രൂപത്തിൽ സമാഹരിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മൾ മാട്രിക്സ് രൂപത്തിൽ ചെയ്യുന്നത് കാരണം മാട്രിക്സ് രൂപത്തിൽ സമവാക്യം പരിഹരിക്കുന്നത് എളുപ്പമാണ് ആദ്യം നമുക്ക് ഈ മെട്രിക്സ് ഇൻറെ ഡിറ്റർമനൻറ്റ് എടുക്കാം അതിനാൽ ഇപ്പോൾ V1 ഇൻറെ മൂല്യം അതുപോലെ നമുക്ക് V2 ഇൻറെ മൂല്യം കണ്ടെത്താം കറണ്ട് ഇൻറെ മൂല്യം ഈ രീതി ഉപയോഗിച്ച് നിങ്ങൾക്ക് ചോദ്യത്തിൽ ചോദിച്ച ഇൻറെ മൂല്യം എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും സർക്യൂട്ടിൽ ഉള്ള and ഇൻറെ മൂല്യം കണ്ടെത്താൻ ആവശ്യപ്പെടുന്ന മറ്റൊരു ഉദാഹരണം നോക്കാം നമുക്ക് വീണ്ടും നോഡൽ വിശകലനം ഉപയോഗിക്കാം ഇപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നതു പോലെ വോൾട്ടേജ് അല്ലെങ്കിൽ നോഡ് ഒരു വോൾട്ടേജ് ഉറവിടത്തിലൂടെ ബന്ധിപ്പിച്ചിരിക്കുകയാണ് അതിനാൽ നമുക്ക് 1 സൂപ്പർ നോഡ് സൃഷ്ടിക്കാൻ കഴിയും അത് and എന്ന വോൾട്ടേജ് ഉറവിടങ്ങളിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നു ഉൾപ്പെടുന്ന ഒരു സൂപ്പർ നോഡ് നമുക്ക് സൃഷ്ടിക്കാം മാത്രമല്ല ഈ സൂപ്പർ നോഡിൽ നമുക്ക് കെസിഎൽ പ്രയോഗിക്കുകയും ചെയ്യാം ഈ സൂപ്പർ നോഡിൽ കെസിഎൽ പ്രയോഗിക്കുകയാണെങ്കിൽ ലഭിക്കുന്നത് ഒരു കറന്റ് ഉള്ളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് 3 ആമ്പിയർ ലഭിക്കും മറ്റ് 3 വൈദ്യുത പ്രവാഹങ്ങൾ പുറത്തേക്കാണ് അതിനാൽ നമുക്ക് എഴുതാം ഇത് ലളിതമാക്കുമ്പോൾ നമുക്ക് സമവാക്യം ഇതേപോലെ ലഭിക്കുന്നു വോൾട്ടേജ് ഉറവിടം നോഡ് 1 നും 2 നും ഇടയിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം അവസാന രണ്ട് സമവാക്യങ്ങൾ ഉപയോഗിച്ച് നോഡൽ വിശകലനം ഉപയോഗിച്ച് നിങ്ങൾക്ക് ന്റെ മൂല്യം എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും അടുത്തതായി മെഷ് വിശകലന ആശയം നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്ന് നമുക്ക് നോക്കാം മുമ്പത്തെ രണ്ട് ഉദാഹരണങ്ങളിൽ നമ്മൾ നോഡൽ വിശകലനം ഉപയോഗിച്ചു ഈ ഉദാഹരണത്തിൽ മെഷ് വിശകലനം നമ്മൾ എങ്ങനെ പ്രയോഗിക്കുമെന്ന് മനസിലാക്കാൻ ശ്രമിക്കാം നിങ്ങൾ ഈ ചിത്രം കാണുകയാണെങ്കിൽ 3 ലൂപ്പുകൾ ഉണ്ടെന്ന് കാണാം ഈ ലൂപ്പിന് അടുത്ത ലൂപ്പിന് മുകളിലുള്ള ലൂപ്പിന് എന്ന് നമ്മൾ കറന്റിന്റെ മൂല്യം നൽകുന്നു ഇപ്പോൾ നമ്മൾ കെവിഎൽ പ്രയോഗിക്കണം അതിനാൽ നമ്മൾ മെഷ് 1 ലേക്ക് കെവിഎൽ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ലഭിക്കും അതുപോലെ മെഷ് 2 ലൂപ്പ് 3 അതിനാൽ ഇത് ലളിതമാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ലഭിക്കും ഈ 2 സമവാക്യങ്ങൾ മാട്രിക്സ് രൂപത്തിൽ സമാഹരിക്കാം മുമ്പത്തെ ഉദാഹരണത്തിൽ ചെയ്തതുപോലെ ഇപ്പോൾ ഈ സാഹചര്യത്തിലും ഈ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റിന്റെ മൂല്യം നമ്മൾ ആദ്യം നിർണ്ണയിക്കും അടുത്തതായി നമ്മൾ ഇന്റെ മൂല്യം കണ്ടെത്തണം കാരണം ഇന്റെ മൂല്യം കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പോൾ നമുക്ക് ഇന്റെ മൂല്യം കണ്ടെത്താൻ ശ്രമിക്കാം ചോദ്യത്തിൽ കറന്റിന്റെ മൂല്യം കണ്ടെത്തേണ്ടതുണ്ട് പക്ഷേ അതിനാൽ അടുത്തതായി മെഷ് വിശകലനം ഉപയോഗിച്ച് ഈ സർക്യൂട്ടിലെ Vo ഇൻറെ മൂല്യം കണ്ടെത്താൻ ശ്രമിക്കാം 2 ലൂപ്പുകൾക്കിടയിൽ അഥവാ 2 മെഷുകൾക്കിടയിൽ 1 കറണ്ട് ഉറവിടം സ്ഥാപിച്ചിരിക്കുന്നു അതിനാൽ നമുക്ക് ഒരു സൂപ്പർ മെഷ് സൃഷ്ടിക്കാൻ കഴിയും കാരണം നിങ്ങൾക്ക് 2 മെഷുകൾക്കിടയിൽ കറണ്ട് ഉറവിടമുണ്ടെങ്കിൽ സൂപ്പർ മെഷ് സൃഷ്ടിച്ച് അത് പരിഹരിക്കാനാകും കറണ്ട് ഉറവിടം കാരണം 3 ഉം 4 ഉം മെഷുകൾ ഇപ്പോൾ സൂപ്പർ മെഷ് ആയി രൂപപ്പെടും നമ്മൾ ആദ്യം കെവിഎൽ മെഷ് 1 ലേക്ക് പ്രയോഗിക്കുന്നു നമ്മൾ മെഷ് 1 ലേക്ക്പ്രയോഗിക്കുമ്പോൾ അത് മെഷ് 2 ന് സൂപ്പർമെഷിനായി മെഷ് 3 നും 4 നും ഇടയിലുള്ള കറണ്ട് ഉറവിടം കാരണം നോഡ് എ യിൽ ഇപ്പോൾ നമുക്ക് 4 സമവാക്യങ്ങളുണ്ട് I2 ഇൻറെ ഉപയോഗവും I4 ഇൻറെ മൂല്യവും ഉപയോഗിച്ച് നമുക്ക് ഈ 2 മൂല്യങ്ങളെ ഈ 2 സമവാക്യങ്ങളിൽ ഉൾപ്പെടുത്താനും ലളിതമാക്കാനും കഴിയും അതിനാൽ നമ്മൾ ലളിതമാക്കുമ്പോൾ അതിനെ 2 സമവാക്യങ്ങളായി ചുരുക്കുന്നു നമുക്ക് ഇപ്പോൾ ഈ 2 സമവാക്യങ്ങളുണ്ട് അത് നമുക്ക് മാട്രിക്സിന്റെ രൂപത്തിൽ സമാഹരിക്കാൻ കഴിയും നമ്മൾ ഡിറ്റർമനൻറ്റ് ഇതുപോലെ കണക്കാക്കുന്നു അതിനാൽ വോൾട്ടേജ് കണക്കാക്കപ്പെടുന്നത് ഇങ്ങിനെയാണ് നമ്മൾ ഒരു ഡിസി സർക്യൂട്ട് വിശകലനം ചെയ്തപ്പോൾ ചർച്ച ചെയ്ത അതേ വിദ്യകൾ നമുക്ക് എസി സർക്യൂട്ട് വിശകലനത്തിന് പ്രയോഗിക്കാം ഇന്നത്തെ സെഷൻ അവസാനിച്ചിരിക്കുന്നു